മൊഡ്യൂൾ 3 ലേക്ക് സ്വാഗതം യൂണിറ്റ് 15 ഡിസൈൻ ചിന്തയ്ക്കുള്ള നിർദ്ദേശം മുമ്പത്തെ യൂണിറ്റിൽ നിർദ്ദേശത്തോടുള്ള അനുകരണ സമീപനം ഈ യൂണിറ്റിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചിന്തയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കും ഡിസൈൻ ഒരു പ്രധാന അർത്ഥത്തിൽ എഞ്ചിനീയറിംഗിന്റെ സത്തയാണ് ഡിസൈൻ ഒരു ആവശ്യം തിരിച്ചറിയുന്നതിലൂടെ ആരംഭിക്കുകയും ഒരു ഉപയോക്താവിന്റെ കൈയിലുള്ള ഉൽപ്പന്നമോ സിസ്റ്റമോ ആയി അവസാനിക്കുകയും ചെയ്യുന്നു ഇത് വിശകലനത്തേക്കാൾ പ്രധാനമായും എഞ്ചിനീയറിംഗ് സയൻസിന്റെ കേന്ദ്രമായ സമന്വയമായി ബന്ധപ്പെട്ടതാണ് ഇത് ഒരു ജനപ്രിയ നിർവചനമാണ് മറ്റൊരു നിർവചനം ഡിസൈൻ എഞ്ചിനീയറിംഗിനെ നിർവചിക്കുന്നു സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ വസ്തുക്കൾ സൃഷ്ടിക്കുന്നത് എഞ്ചിനീയറുടെ ജോലിയാണ് രൂപകൽപ്പനയിൽ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകേണ്ടത് സർവകലാശാലയുടെ ബാധ്യതയാണ് വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോർ എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾ മാത്രമല്ല ഞങ്ങൾ പഠിപ്പിക്കുക സമന്വയ പ്രവർത്തനമായ എഞ്ചിനീയറിംഗ് ഡിസൈനിൽ വിദ്യാർത്ഥികളെ നന്നായി പരിശീലിപ്പിക്കുകയും വേണം എഞ്ചിനീയറിംഗ് രൂപകൽപ്പനയുടെ നിർവചനത്തിനുള്ള മറ്റൊരു ജനപ്രിയ സമീപനം എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നത് ക്രമാനുഗതവും ബുദ്ധിപരവുമായ ഒരു പ്രക്രിയയാണ് അതിൽ ഡിസൈനർമാർ ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഒരു നിശ്ചിത പരിമിതികളിൽ നിന്നു കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഉപകരണങ്ങൾ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയകൾ എന്നിവയ്ക്കായി ആശയങ്ങൾ രൂപപ്പെടുത്തുകയും വിലയിരുത്തുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നു അല്പം വിശാലമായി തോന്നുമെങ്കിലും ഇത് എഞ്ചിനീയറിംഗ് ഡിസൈനിന്റെ സത്ത പിടിച്ചെടുക്കുന്നു ബ്ലൂമിന്റെ ടാക്സോണമി അനുസരിച്ച് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം "കൺസെപ്റ്റ്" എന്ന വാക്ക് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഈ സന്ദർഭത്തിലെ ആശയങ്ങളാൽ അദ്ദേഹം പൊതുവെ അർത്ഥമാക്കുന്നത് പ്രവർത്തനക്ഷമത വ്യക്തമാക്കുക അല്ലെങ്കിൽ ഉപകരണത്തിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഉപയോഗം വ്യക്തമാക്കുക എന്നതാണ് അതിനാൽ ഡിസൈൻ പ്രശ്നങ്ങൾ ഡിസൈനർക്ക് ഒരു ക്ലയന്റോ ഉപഭോക്താവോ ഉണ്ടെന്ന വസ്തുത പ്രതിഫലിപ്പിക്കുന്നു ആരുടെ പ്രയോജനത്തിനായി അവർ ഡിസൈൻ ആർട്ടിഫാക്റ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നോ ഉപഭോക്താക്കളെന്ന് വിളിക്കാൻ കഴിയുന്ന ആത്യന്തിക ഉപയോക്താക്കളുടെ ഒരു കൂട്ടം മനസ്സിൽ ഉണ്ട് ഡിസൈൻ പ്രക്രിയ തന്നെ സങ്കീർണ്ണമായ ഒരു വൈജ്ഞാനിക പ്രക്രിയയാണ് ഡിസൈൻ പൊതുവെ പഠിക്കാൻ പ്രയാസവും കൂടുതൽ സാർവത്രികമായി പഠിപ്പിക്കാൻ പ്രയാസവുമാണ് പരിഹാരങ്ങൾ വികസിപ്പിക്കുമ്പോൾ ഡിസൈനർമാർ ഏർപ്പെടുന്ന അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും സങ്കീർണ്ണമായ വൈജ്ഞാനിക പ്രക്രിയയെ ഡിസൈൻ ചിന്ത പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ രൂപകൽപ്പന എന്നത് കരകൌശലം സൃഷ്ടിക്കുന്നതിനുള്ള യഥാർത്ഥ പ്രക്രിയയാണ് ഡിസൈൻ ചിന്താഗതി എന്നത് വിജ്ഞാന പ്രക്രിയയാണ് ഇത് ഡിസൈനർമാരുടെ മനസ്സിൽ കടന്നുപോകുന്നു "ഡിസൈൻ ചിന്ത" എന്ന പദം 1987 ൽ പ്രസിദ്ധീകരിച്ച "ഡിസൈൻ തിങ്കിംഗ്" എന്ന പുസ്തകത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് പീറ്റർ റോവാണ് വാസ്തുവിദ്യയിലും നഗര ആസൂത്രണത്തിലുമുള്ള ഡിസൈൻ ചിന്തയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കേന്ദ്രം ഡിസൈനിലെ പാറ്റേണുകളുടെ ഉത്ഭവത്തിന് സമാനമാണ് ഇത് രൂപകൽപ്പനയിലെ പാറ്റേണുകൾ വാസ്തുവിദ്യയുടെ പശ്ചാത്തലത്തിലും ഉയർന്നുവന്നിരുന്നുവെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അനുബന്ധ മേഖലകൾ എന്നിവയിൽ വളരെ പ്രചാരത്തിലായി അതുപോലെ ഡിസൈൻ ചിന്ത എന്ന പദം വാസ്തുവിദ്യയുടെയും നഗര ആസൂത്രണത്തിന്റെയും പശ്ചാത്തലത്തിൽ ഉയർന്നുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് മുഴുവൻ എഞ്ചിനീയറിംഗ് സമൂഹത്തിലും വളരെ പ്രചാരത്തിലുണ്ട് എഞ്ചിനീയറിംഗ് ഡിസൈനിന്റെ നിർദ്ദിഷ്ട പശ്ചാത്തലത്തിലുള്ള ഡിസൈൻ ചിന്ത ഇപ്പോൾ എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയുടെ അവിഭാജ്യവും ആവശ്യമായതുമായ ഘടകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എംഐടിയുടെ CDIO സങ്കൽപ്പിക്കുക രൂപകൽപ്പന ചെയ്യുക നടപ്പിലാക്കുക പ്രവർത്തിപ്പിക്കുക സംരംഭം പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഉദാഹരണമാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ഡി സ്കൂളിനെക്കുറിച്ചും പരാമർശിക്കപ്പെടുന്നു പക്ഷേ അത് ബിരുദ എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയുടെ പശ്ചാത്തലത്തിലായിരുന്നില്ല എൻബിഎ വ്യക്തമാക്കിയ നിരവധി പ്രോഗ്രാം ഫലങ്ങൾ എഞ്ചിനീയറിംഗ് ഡിസൈനുമായി നേരിട്ട് ബന്ധപ്പെട്ട കഴിവുകളെ പരാമർശിക്കുന്നു എഞ്ചിനീയറിംഗ് ഡിസൈനർമാർ ഒരു സിസ്റ്റം പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നു ഒരു സാമൂഹിക പ്രക്രിയയിൽ ടീമുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു പരസ്പരം നിരവധി ഭാഷകൾ സംസാരിക്കുന്നു ഇവ ഡിസൈൻ ഭാഷകളാണ് ഈ കഴിവുകൾ സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശം വളരെ സങ്കീർണ്ണമായ ഡിസൈൻ പ്രവർത്തനമാണ് ഇത് പ്രബോധന ഡിസൈൻ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും എഞ്ചിനീയറിംഗ് ഡിസൈൻ ചിന്ത എന്ന റഫറൻസിൽ നിന്ന് രൂപപ്പെടുത്തിയ ചില പ്രധാന സവിശേഷതകൾ ""എഞ്ചിനീയറിംഗ് ഡിസൈൻ ചിന്ത അദ്ധ്യാപനം പഠനം httpwww htm ഇവയാണ് ജനറേറ്റീവ് ചോദ്യങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഹ്രസ്വമായി നോക്കുന്നു സിസ്റ്റങ്ങളുടെ ചിന്ത അനിശ്ചിതത്വം ഡിസൈൻ തീരുമാനചോയിസുകൾ ടീം വർക്ക് വിഷ്വലൈസേഷൻ സർഗ്ഗാത്മകത ഡിസൈൻ ഭാഷകളിലെ ആശയവിനിമയം ഡിസൈൻ ചിന്തയ്ക്കുള്ള നിർദ്ദേശം ഈ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുകയും ഈ പ്രശ്നങ്ങളിലെല്ലാം വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും വേണം പരമ്പരാഗത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആഴത്തിലുള്ള യുക്തിചിന്താ ചോദ്യങ്ങളെ ക്ഷണിക്കുന്നു പക്ഷേ ഉത്തരങ്ങൾ പ്രസക്തമായ വിജ്ഞാന ഡൊമെയ്നിലെ ശരി ഉത്തരങ്ങളിലേക്ക് സംയോജിക്കണം അതായത് ശരിയായ അല്ലെങ്കിൽ വാസ്തവമായ ഉത്തരത്തിൽ എത്തിച്ചേരുക എന്നതാണ് ചോദ്യത്തിന്റെ ലക്ഷ്യം വിപരീതമായി ഡിസൈൻ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ പരിശോധനാ സ്വഭാവമുള്ളവയാണ് മാത്രമല്ല കൃത്യമായി നിർവ്വചിച്ച ചില ശരിയായ വാസ്തവമായ ഉത്തരങ്ങളിൽ എത്തിച്ചേരുന്നതിന്റെ അർത്ഥത്തിൽ അവയുടെ ലക്ഷ്യങ്ങൾ യഥാർത്ഥ ഉത്തരങ്ങളല്ല എന്നാൽ പരിഹാര ഇടം രൂപപ്പെടുത്തുന്നതിന് ഉപയോഗപ്രദമായ ഉപഭോക്താക്കളുടെ അധിക ആശയങ്ങളും ഉദ്ദേശ്യങ്ങളുമാണ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശ്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു പ്രക്രിയയാണിത് അവ പ്രകൃതിയിൽ കൂടുതൽ ഉൽപാദനക്ഷമതാ സ്വഭാവമുള്ളവയാണ് മാത്രമല്ല യഥാർത്ഥ ഉത്തരം എന്നൊന്നില്ല പക്ഷേ അവ പര്യവേക്ഷണാത്മകമാണ് സാധാരണയായി ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളെ യഥാക്രമം കേന്ദ്രാഭിമുഖമായ ചിന്ത ഭിന്നമായ ചിന്ത എന്നിങ്ങനെ വിളിക്കുന്നു എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളെ കേന്ദ്രാഭിമുഖമായ ചിന്തയിൽ പരിശീലിപ്പിക്കുന്നു ഡിസൈൻ ചിന്തയിൽ വ്യത്യസ്തമായ അന്വേഷണം പഠിപ്പിക്കുന്നത് സാധാരണയായി എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല കേസ് സ്റ്റഡി അധിഷ്ഠിത ഗ്രൂപ്പ് ചർച്ചകൾ ജനറേറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കുന്നതിനും പ്രാധാന്യം മനസിലാക്കുന്നതിനും ജനറേറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നതിനും വ്യക്തമായ പരിശീലനം ആവശ്യമാണ് സാധ്യമാകുന്നിടത്ത് യഥാർത്ഥ ക്ലയന്റുകളുമായുള്ള ആശയവിനിമയവും ഇൻസ്ട്രക്ടറിൽ നിന്ന് തുടർന്നുള്ള മാർഗ്ഗനിർദ്ദേശവും വളരെയധികം സഹായിക്കും റോൾ പ്ലേ സിമുലേഷൻ ഗെയിമുകളും തീർച്ചയായും സഹായിക്കും സ്ഥാപനങ്ങൾ ബോധപൂർവ്വം അത്തരം പ്രവർത്തനങ്ങൾക്കായി ആസൂത്രണം ചെയ്യണം കാരണം പതിവ് കോഴ്സുകൾ സംയോജിത ചോദ്യങ്ങൾ കേന്ദ്രാഭിമുഖമായ ചിന്ത എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൂടാതെ ഭിന്നമായ ചിന്ത ഉൽപാദനപരമായ ചോദ്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വിദ്യാർത്ഥികൾ ആ കഴിവുകൾ നേടണമെങ്കിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ കൂടുതൽ കൂടുതൽ അഭിലഷണീയവും സങ്കീർണ്ണവുമാവുകയാണ് കഴിവുകൾ കൂടുന്നതിനനുസരിച്ച് സാങ്കേതികവിദ്യകൾ കൂടുതൽ സങ്കീർണ്ണമാകുമ്പോൾ ഉപഭോക്താക്കളുടെ അഭിലാഷങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ സിസ്റ്റങ്ങളും കൂടുതൽ സങ്കീർണ്ണമാകും എൻബിഎയുടെ കൂടുതൽ പിഒകൾക്ക് പരിസ്ഥിതി സുസ്ഥിരത സമൂഹം നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡിസൈനർമാർ പരിഗണിക്കേണ്ടതുണ്ട് ഒരു സിസ്റ്റത്തിന്റെ ഒന്നിലധികം ഭാഗങ്ങൾക്കിടയിലുള്ള പരസ്പരവ്യവഹാരത്തിൽ നിന്നും സിസ്റ്റവും പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പരവ്യവഹാരത്തിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള ആസൂത്രിതമല്ലാത്ത പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി അറിയാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണം പല ഭാഗങ്ങളും ഒരുമിച്ച് ചേർക്കുമ്പോൾ ഫലമായുണ്ടാകുന്ന സങ്കീർണ്ണത ആസൂത്രിതമല്ലാത്ത ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം പരിണതഫലങ്ങൾ ആസൂത്രിതമല്ല ഘടകങ്ങൾക്കിടയിലുള്ള പരസ്പരവ്യവഹാരം ഉപസിസ്റ്റങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റവും പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പരവ്യവഹാരം എന്നിവയിൽ നിന്ന് അവ ഉണ്ടാകാം അപൂർണ്ണമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കണം ഇത് യഥാർത്ഥ ലോകത്തിലെ ഏത് പ്രശ്നത്തിലും സംഭവിക്കുന്നു അവ്യക്തമായ ലക്ഷ്യങ്ങളും ഉപയോക്താക്കൾക്ക് പലപ്പോഴും അവർക്ക് കൃത്യമായി എന്താണ് വേണ്ടതെന്ന് വ്യക്തമല്ല ഏകദേശ മോഡലുകളും ഡിസൈൻ സമയത്ത് ഞങ്ങൾ സൃഷ്ടിക്കുന്ന മിക്കവാറും എല്ലാ മോഡലുകളും യാഥാർത്ഥ്യത്തിന്റെ ഏകദേശമാണ് അതിനാൽ ഏകദേശ മോഡലുകൾ അനിശ്ചിതത്വം കൈകാര്യം ചെയ്യുക സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ചിന്തിക്കുക ഒരു നിർദ്ദിഷ്ട സന്ദർഭത്തിൽ ഭൌതിക അളവുകളെക്കുറിച്ച് ഏകദേശ കണക്കെടുക്കുക മാത്രമല്ല ഡിസൈനിന്റെ സാനിറ്റി ചെക്കുകൾക്കും സുരക്ഷിതമായി അവഗണിക്കാൻ കഴിയുന്ന പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിനും ഇത് ആവശ്യമാണ് സാധാരണയായി ഒരു സങ്കീർണ്ണ സിസ്റ്റത്തിന് വളരെയധികം പാരാമീറ്ററുകൾ ഉണ്ടാകും മാത്രമല്ല എല്ലാ പാരാമീറ്ററുകളും സൂക്ഷിക്കുന്നത് ഡിസൈൻ ടീമിന് മാനുഷികമായി അസാധ്യമായിരിക്കും അതിനാൽ മിക്കപ്പോഴും ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭൌതിക അളവുകളെക്കുറിച്ച് ഏകദേശ കണക്കെടുക്കുകയും തുടർന്നുള്ള ഡിസൈൻ പ്രക്രിയയിൽ ഏതൊക്കെ പാരാമീറ്ററുകൾ സുരക്ഷിതമായി അവഗണിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു നാം ബോധപൂർവ്വം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു വൈദഗ്ദ്ധ്യം കൂടിയാണിത് ആവശ്യമുള്ളപ്പോൾ അനുയോജ്യമായ പരീക്ഷണങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനും അധിക ഡാറ്റ നേടുന്നതിനും ഒരു ഡിസൈൻ ആശയം സാധൂകരിക്കുന്നതിനും ചില ആവശ്യകതകൾ കൂടുതൽ വ്യക്തമാക്കുന്നതിനും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണം അനുയോജ്യമായ ചില പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തേണ്ട നിരവധി സന്ദർഭങ്ങളുണ്ട് അതിനാൽ അനുയോജ്യമായ പരീക്ഷണങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി കൾച്ചറൽ ടീമുകളിൽ പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകണം മറ്റൊരു പിഒയും ഈ ആവശ്യകത പറയുന്നു ഉചിതമായ ഡിസൈൻ ഭാഷകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുക അവ വാചക പ്രസ്താവനകൾ ഗ്രാഫിക്കൽ പ്രാതിനിധ്യം ഗണിതശാസ്ത്ര അല്ലെങ്കിൽ വിശകലന മോഡലുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡൊമെയ്നിന് സവിശേഷവുമായ ഭാഷകൾ ആകാം അതിനാൽ അവർ ഉചിതമായ ഡിസൈൻ ഭാഷകൾ ഉപയോഗിക്കണം ഡിസൈൻ തീരുമാന ചോയ്സുകൾ നടത്തുക മിക്കപ്പോഴും അവ ശരിയും തെറ്റും തമ്മിലുള്ളതല്ല മറിച്ച് ശരിയും ശരിയും തമ്മിലുള്ളതാണ് രണ്ട് ചോയിസുകളും ശരിയാണ് എന്നാൽ ഏതാണ് മികച്ച ചോയ്സ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം കാര്യക്ഷമതയുടെ കാര്യത്തിലും വിലയുടെ കാര്യത്തിലും വിപണിയിലേക്കുള്ള സമയത്തിന്റെ കാര്യത്തിലും ഉപയോഗക്ഷമതയുടെ കാര്യത്തിലും മികച്ചത് നിരവധി പാരാമീറ്ററുകൾ ഉണ്ടാകാം അടിസ്ഥാനപരമായി രണ്ടും ശരിയാണ് പക്ഷേ ഡിസൈനർമാർ അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കണം ഇത്തരത്തിലുള്ള ചിന്തയ്ക്കും വളരെ പ്രത്യേക പരിശീലനം ആവശ്യമാണ് മാനവ വിഭവശേഷി ചെലവ് ഷെഡ്യൂളുകൾ എന്നിവയുൾപ്പെടെയുള്ള വിഭവ ആവശ്യകതകൾ കണക്കാക്കുക പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശം പ്രശ്ന അധിഷ്ഠിത നിർദ്ദേശം സിമുലേഷൻ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശം നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനം എന്നിവയാണ് ഡിസൈൻ ചിന്തയ്ക്ക് സാധ്യമായ ചില സമീപനങ്ങൾ ഈ നാല് സമീപനങ്ങളും ഞങ്ങൾ മുമ്പത്തെ യൂണിറ്റുകളിൽ ചർച്ചചെയ്തിട്ടുണ്ട് ഈ സമീപനങ്ങളുടെ ഗുണങ്ങളും പരിമിതികളും ഞങ്ങൾ കണ്ടു നിർദ്ദിഷ്ട സാഹചര്യ സന്ദർഭവും ഞങ്ങൾ പരിശോധിച്ചു ഈ സമീപനങ്ങളെ നിർദ്ദിഷ്ട സ്ഥാപനങ്ങളിലേക്കും നിർദ്ദിഷ്ട സന്ദർഭങ്ങളിലേക്കും പൊരുത്തപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഈ മുമ്പത്തെ യൂണിറ്റുകളിൽ ചർച്ച ചെയ്തതുപോലെ എഞ്ചിനീയറിംഗ് പാഠ്യപദ്ധതിയിൽ ഡിസൈൻ ചിന്തയ്ക്കുള്ള ഏറ്റവും പ്രചാരമുള്ള സമീപനം പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങളായി തുടരുന്നതാണ് ആ പ്രവർത്തനം എഞ്ചിനീയർമാർ അവരുടെ പ്രൊഫഷണൽ പരിശീലന സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തനവുമായി വളരെ സാമ്യമുള്ളതാണ് എന്നതാണ് കാരണം പരമ്പരാഗതമായി എഞ്ചിനീയറിംഗ് പ്രോഗ്രാം പാഠ്യപദ്ധതിയിൽ അവസാന വർഷത്തിലോ അവസാന സെമസ്റ്ററിലോ ഒരു പ്രധാന പ്രോജക്റ്റ് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ ആദ്യത്തെ ഒരേയൊരു അവസരമാണിത് CDIO ചട്ടക്കൂട് സാധാരണയായി ഇതിനെ ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായ പദാവലി ഇതിനെ പ്രധാന പ്രോജക്റ്റ് അല്ലെങ്കിൽ അവസാന വർഷ പ്രോജക്റ്റ് എന്ന് വിളിക്കുക എന്നതാണ് ചില പ്രോഗ്രാമുകളിൽ പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ ഒരു കോഴ്സ് ഉൾപ്പെടുന്നു ആരംഭത്തിലെ സെമസ്റ്ററുകളിൽ മിക്കപ്പോഴും ഒരു തിയറി മാത്രമുള്ള ഡിസൈൻ കോഴ്സ് സാധാരണയായി 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 സെമസ്റ്ററുകളിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഒരു കോഴ്സ് ഉണ്ട് എന്നാൽ ഇത് എല്ലാ വിഷയങ്ങളിലും സാധാരണമല്ല മിക്കപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ചിലപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗും അത്തരമൊരു കോഴ്സ് ഉൾക്കൊള്ളുന്നു പക്ഷേ പലപ്പോഴും ഇത് സിദ്ധാന്തം മാത്രം കോഴ്സാണ് ചില സ്ഥാപനങ്ങളിൽ അവയ്ക്ക് ചില ലബോറട്ടറി ഘടകങ്ങളുണ്ട് അവിടെ ഡിസൈൻ പ്രവർത്തനത്തിൽ ഉപയോഗപ്രദമാകുന്ന ചില സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഉപയോഗം അവർ സാധാരണയായി പഠിപ്പിക്കുന്നു അവസാന വർഷത്തിലെ പ്രധാന പ്രോജക്റ്റ് ശരിക്കും വിലപ്പെട്ടതാണ് ഇതാദ്യമായാണ് വിദ്യാർത്ഥികൾ സിന്തസിസ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഇത് അവർക്ക് യഥാർത്ഥ എഞ്ചിനീയറിംഗ് ഡിസൈൻ അനുഭവം നൽകുന്നു ഇത് സ്കീമിൽ വളരെ വൈകി കാണപ്പെടുന്നു അവസാന വർഷത്തിലോ അവസാന സെമസ്റ്ററിലോ ഈ സാഹചര്യത്തിൽ ഒരു പ്രോജക്റ്റിന് പകരം അധിക തിയറി കോഴ്സുകൾ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ഒരു ഓപ്ഷൻ നൽകാനുള്ള ചില സ്ഥാപനങ്ങളുടെ ആശയം ഒരുപക്ഷേ വളരെ നല്ല നീക്കമല്ല ഒന്നാം വർഷത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡിസൈൻ അനുഭവം നൽകുക എന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രിയങ്കരമായ ഒരു സമീപനം പ്രോഗ്രാമിൽ ചേരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിന് പ്രകാശനം ലഭിക്കുന്നത് അവസാന വർഷത്തിൽ മാത്രമാണ് എന്നതാണ് പലപ്പോഴും ആശയം അപ്പോഴേക്കും ചില വിദ്യാർത്ഥികൾ തരംതാഴ്ത്തപ്പെടും ആദ്യ വർഷം മുഴുവൻ എഞ്ചിനീയർമാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രകാശനവും ഇല്ല ഒന്നാം വർഷത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രവർത്തനത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ചിന്ത ഒരു സ്വതന്ത്ര ഡിസൈൻ ചിന്താ കോഴ്സ് ഒന്നുകിൽ 0 തിയറി 0 ട്യൂട്ടോറിയൽ 1 ലാബ് അല്ലെങ്കിൽ 0 തിയറി 0 ട്യൂട്ടോറിയൽ 2 ലാബ് യൂണിറ്റുകൾ തിരഞ്ഞെടുക്കാം ഇത് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശ സമീപനം ഉപയോഗിച്ച് ആദ്യ വർഷത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്നു CDIO ചട്ടക്കൂട് ഇതിനെ ആധാരശില പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ ഇതിനെ ഒരു ഡിസൈൻ ചിന്താ കോഴ്സ് എന്ന് ഞങ്ങൾ വിളിക്കുന്നു വിദ്യാർത്ഥികൾ ഒന്നാം വർഷത്തിൽ മാത്രമുള്ളതിനാൽ ഇതിനകം ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇൻസ്ട്രക്ടർ ഗണ്യമായി ഉപദേശപരമായ നിർദ്ദേശങ്ങൾ നൽകണം എഞ്ചിനീയറിംഗ് ഡിസൈൻ ചിന്തയുടെ സവിശേഷതകളായി ഞങ്ങൾ ചർച്ച ചെയ്ത പല പ്രശ്നങ്ങൾക്കും ചില വ്യക്തമായ ഉപദേശപരമായ നിർദ്ദേശങ്ങൾ ആവശ്യമായി വന്നേക്കാം തിയറിയുടെ ക്രെഡിറ്റുകൾ 0 ആണെങ്കിലും സാധാരണയായി ഇൻസ്ട്രക്ടർമാർ വിദ്യാർത്ഥികൾക്ക് ചില അധിക നിർദ്ദേശങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് ഒന്നാം വർഷത്തിലെ വെല്ലുവിളികൾ ഈ വെല്ലുവിളികൾ അവസാന വർഷ പ്രോജക്റ്റിൽ പോലും നിലനിൽക്കുന്നു എന്നാൽ ഒന്നാം വർഷ പ്രോജക്റ്റിൽ അവ കൂടുതൽ കഠിനമാവുന്നു കാരണം വിദ്യാർത്ഥികൾക്ക് അത്തരം ഡൊമെയ്ൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നിർദ്ദിഷ്ട കോഴ്സുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യുന്നതിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സ് എന്നിവയിലെ ഒന്നോ രണ്ടോ പ്രാഥമിക ആമുഖ കോഴ്സുകൾ അറിഞ്ഞിട്ടുണ്ടാകാം പ്രാരംഭ പ്രശ്നം ഞങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തും എന്നതാണ് പ്രശ്നങ്ങൾ സ്വാഭാവിക ഭാഷ ഉപയോഗിച്ച് അവ്യക്തമായ രീതിയിൽ നൽകിയ പ്രസ്താവനയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പദങ്ങളിൽ ഞങ്ങൾ എങ്ങനെ പ്രശ്നം രൂപപ്പെടുത്തും പ്രാരംഭ ഫോർമുലേഷൻ എങ്ങനെ നടക്കുന്നു അവസാനമായി എഞ്ചിനീയറിംഗ് പദങ്ങളിൽ ഇത് ഒരു പ്രത്യേക പ്രശ്നം എങ്ങനെ നേടും സ്വാഭാവിക ഭാഷയിലെ പ്രശ്നത്തിന്റെ അവ്യക്തമായ പ്രസ്താവനയിൽ നിന്ന് പൂർണ്ണമായും വ്യക്തമാക്കിയ പ്രശ്നത്തിന്റെ എഞ്ചിനീയറിംഗ് പദങ്ങളിൽ വളരെ വ്യക്തമായ പ്രസ്താവനയിലേക്ക് നീങ്ങുന്നതിന് ഞങ്ങൾ വിദ്യാർത്ഥികളെ എങ്ങനെ പരിശീലിപ്പിക്കും ഞങ്ങൾ എങ്ങനെ മൾട്ടിഡിസിപ്ലിനറി ടീമുകൾ രൂപീകരിക്കും ആവശ്യമായ കഴിവുകൾ ചില അടിസ്ഥാന ഡിസൈൻ ആശയങ്ങൾ ഉപകരണങ്ങൾ മനോഭാവം ചില മെഷിനറികളും ചില സോഫ്റ്റ്വെയർ പാക്കേജുകളും ചില പ്രാഥമിക അടിസ്ഥാന പ്രകാശനം ആവശ്യമാണ് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ചില അടിസ്ഥാന പരിശീലനം നൽകേണ്ടതുണ്ട് അതുവഴി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് അവർക്ക് ചെറിയതോതിൽ കഴിവുകൾ ലഭിക്കും ഉപയോഗിക്കേണ്ട ഡിസൈൻ പ്രക്രിയ നിർദ്ദിഷ്ട പ്രോസസ്സ് ഘട്ടങ്ങൾ വളരെ വ്യക്തമാക്കേണ്ടതുണ്ട് കൂടാതെ ആ പ്രക്രിയ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും വേണം വ്യക്തമായും മിക്ക സ്ഥാപനങ്ങളിലും ഒന്നാം വർഷത്തിൽ വളരെയധികം വിദ്യാർത്ഥികളുണ്ട് അതിനാൽ പ്രോജക്റ്റ് ടീമുകളെ കൈകാര്യം ചെയ്യുന്നതിന് അത് എണ്ണത്തിൽ വളരെ വലുതായിരിക്കും ഫാക്കൽറ്റി ഭാഗത്തു നിന്ന് ഗണ്യമായ സമയവും പരിശ്രമവും ആവശ്യമാണ് ഫാക്കൽറ്റികളുടെ ലോഡ് ഗണ്യമായ തോതിൽ വർധിക്കും മാത്രമല്ല ഈ വിഭവങ്ങൾ എണ്ണത്തിൽ മതിയായതായിരിക്കാൻ ഞങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് വിലയിരുത്തലും ഒരു വെല്ലുവിളിയാണ് പൂർത്തിയായ ജോലികൾ മാത്രമല്ല ഞങ്ങൾ വിലയിരുത്തേണ്ടത് പ്രക്രിയയുടെ അനുവർത്തനംവിദ്യാർത്ഥികൾ മനസിലാക്കിയതും ഡിസൈൻ പ്രോസസ്സ് പിന്തുടരുന്നതും അന്തിമ ഉൽപ്പന്നവും ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് കൂടാതെ വ്യക്തിഗത സംഭാവനയും ടീം ജോലിയും തമ്മിൽ വ്യക്തമായ വ്യത്യാസം കണ്ടെത്തേണ്ടതുണ്ട് ടീമിനേയും ഒരോ വ്യക്തിയെയും വിലയിരുത്തുമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ പാഠ്യപദ്ധതിയുടെ ഡിസൈനർമാർ ശരിക്കും അഭിസംബോധന ചെയ്യണം ഇതിനുള്ള സാധാരണ സമീപനം തുടക്കത്തിൽ സിദ്ധാന്തത്തിന്റെയും ഉപകരണങ്ങളുടെയും നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് ചെറിയതോതിൽ ചില കഴിവുകൾ നൽകാൻ ഈ പ്രകാശനം ആവശ്യമാണ് പ്രശ്ന രൂപീകരണ ഘട്ടത്തിൽ ക്ലോസ് മെന്ററിംഗും സംഭവിക്കുന്നു കാരണം അവർ വ്യക്തമാക്കിയ പ്രശ്നത്തെ വ്യക്തമായും കൃത്യമായ എഞ്ചിനീയറിംഗ് പദങ്ങളിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഇത് വീണ്ടും ഫാക്കൽറ്റികൾക്ക് ഒരു ലോഡാണ് മാർഗ്ഗനിർദ്ദേശം ക്രമേണ കുറയുന്നു അതുവഴി വിദ്യാർത്ഥികൾ ഫാക്കൽറ്റിയുടെ കൈ പിടിക്കാതെ സ്വതന്ത്രമായും സ്വന്തം ഗ്രൂപ്പുകളായും ചിന്തിക്കാൻ അനുയോജ്യമാകും ഇത് പ്രാരംഭ ഘട്ടത്തിൽ സംഭവിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമായി ഫാക്കൽറ്റിയുടെ ലോഡ് തുടരുന്നു ചില സ്ഥാപനങ്ങളിൽ മറ്റൊരു സമീപനം പരീക്ഷിച്ചു നോക്കുന്നു ഇത് ഇപ്പോഴും ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലില്ല പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ശ്രമിക്കുന്നു ഇത് ചില സ്ഥാപനങ്ങളിലും വിദേശത്തും പരീക്ഷിച്ചു പ്രാരംഭത്തിൽ കുറവ് നേരിട്ടുള്ള നിർദ്ദേശ സിദ്ധാന്തവും ഉപകരണങ്ങളും ഏകദേശം 2 ആഴ്ച സോഫ്റ്റ്വെയർ പാക്കേജുകളിലേക്കുള്ള ചില പ്രകാശനവും മെഷിനറികളും ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടും ഏകദേശം 2 ആഴ്ച ഡിസൈൻ ഉപകരണങ്ങൾ പഠിക്കുന്നതിനുള്ള അടിസ്ഥാനം നൽകാൻ ഫാക്കൽറ്റി നിയോഗിച്ച വളരെ ചെറിയ പ്രോജക്റ്റ് ഇത് ഏകദേശം 4 ആഴ്ചയാകാം ഒരു ഡിസൈൻ പ്രശ്നത്തിൽ ഒരു ടീമിൽ പ്രവർത്തിക്കുക എന്ന ആശയം പ്രോജക്റ്റ് ടീമുകൾക്ക് സുഖകരമാക്കുന്നതിന് ഇത് കൂടുതൽ പര്യവേക്ഷണാത്മകമാണ് അതിനാൽ ചിന്താ ഡിസൈനിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക റിവേഴ്സ് എഞ്ചിനീയറിംഗിലെ ഒരു ചെറിയ പ്രോജക്റ്റ് ഏകദേശം 3 ആഴ്ച പൂർത്തിയായ ഒരു ഉൽപ്പന്നം നൽകുകയും ഉൽപ്പന്നം എങ്ങനെ സമന്വയിപ്പിച്ചുവെന്ന് മനസിലാക്കാൻ വിദ്യാർത്ഥികൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതിനെത്തുടർന്ന് സാധാരണയായി ഒരുതരം ചർച്ച നടക്കും അവിടെ വിദ്യാർത്ഥികൾ ഈ അന്തിമ ഉൽപ്പന്നത്തിൽ എത്തുന്നതിനായി പിന്തുടരുന്ന ഡിസൈൻ പ്രക്രിയയെക്കുറിച്ച് അഭിപ്രായങ്ങളും വിമർശനങ്ങളും പ്രകടിപ്പിക്കുന്നു ഒരു യഥാർത്ഥ അല്ലെങ്കിൽ റോൾ പ്ലേ ക്ലയന്റിനായുള്ള ഒരു പ്രധാന ഡിസൈൻ പ്രോജക്റ്റ് ഏകദേശം 6 ആഴ്ചയോളം ഈ പരിശീലന പ്രവർത്തനത്തിന്റെ യഥാർത്ഥ പര്യവസാനമാണിത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു യഥാർത്ഥ ക്ലയന്റിനായി ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള ധീരമായ നടപടി സ്വീകരിച്ചു സാധാരണയായി ക്ലയന്റ് ഒരു പ്രാദേശിക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണ് അതിനാൽ പ്രാദേശിക കമ്മ്യൂണിറ്റികളെ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസിലാക്കാൻ വിദ്യാർത്ഥികളെ അയയ്ക്കുന്നു തുടർന്ന് മടങ്ങിവന്ന് ഫാക്കൽറ്റികളുമായി ചർച്ച ചെയ്ത് പ്രാദേശിക സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഡിസൈനുമായി മുന്നോട്ട് വരിക തീർച്ചയായും അത്തരമൊരു കാര്യം സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇൻസ്ട്രക്ടർക്ക് ഒരു ക്ലയന്റിന്റെ പങ്ക് വഹിക്കാൻ കഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രോജക്റ്റ് ടീമുകൾ ക്ലയന്റുകളുടെ റോളുകൾ വഹിക്കുന്നു എന്നാൽ ക്ലയന്റിൽ നിന്ന് ആവശ്യകതകൾ വിശദീകരിക്കുക എന്ന ആശയത്തിന് ചില പ്രകാശനം നൽകണം മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ആവശ്യകതകൾ വിശദീകരിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയുണ്ട് ഈ പ്രത്യേക പ്രക്രിയ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകണം ഒന്നാം വർഷത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഡിസൈൻ ചിന്തയിലും ഡിസൈനിലും ഒരു അനുഭവം ലഭിക്കുന്നത് അങ്ങനെയാണ് ഇത് നന്നായി പ്രവർത്തിക്കുന്നതായി തോന്നുന്നു എന്നാൽ വീണ്ടും പ്രധാന വെല്ലുവിളി ഫാക്കൽറ്റിയുടെ ഭാരം ആണ് സൃഷ്ടിക്കേണ്ട പ്രോജക്റ്റ് ആശയങ്ങളുടെ എണ്ണം നൽകേണ്ട വിഭവങ്ങൾ വിദ്യാർത്ഥി ടീമുകളെ മെന്ററിംഗ് ചെയ്യുന്നതിന് ചെലവഴിക്കേണ്ട സമയം വിലയിരുത്തലിനും മൂല്യനിർണ്ണയത്തിനും ചെലവഴിക്കുന്ന സമയം എന്നിവ ഫാക്കൽറ്റിയുടെ ഗണ്യമായ ഭാരം പ്രതിനിധീകരിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും എല്ലാ തല്പരകക്ഷികളും നേട്ടങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതായി കണക്കാക്കുന്നതിനാൽ ആദ്യ വർഷത്തിലെ ഒരു ഡിസൈൻ പ്രോജക്റ്റ് കൂടുതൽ പ്രചാരത്തിലുണ്ട് ഫാക്കൽറ്റി വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ വ്യവസായം പോലും വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഡിസൈൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചിന്തകൾ എന്നിവ ആദ്യവർഷത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് വളരെ ആകർഷകമാണ് എന്ന് കരുതുന്നു ഇത് എഞ്ചിനീയറിംഗിൽ വിദ്യാർത്ഥികളുടെ താൽപര്യം വർദ്ധിപ്പിക്കുകയും ഉയർന്ന സെമസ്റ്ററുകളിൽ മികച്ച പഠനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ കണ്ടെത്തി ഉയർന്ന സെമസ്റ്ററുകളിൽ പഠിച്ച കോഴ്സുകളുടെ പശ്ചാത്തലം അവർക്ക് നന്നായി കാണാൻ കഴിയും കൂടാതെ ആ കോഴ്സുകളെ അവരുടെ പ്രൊഫഷണൽ ആവശ്യകതകളുമായി മികച്ച രീതിയിൽ ബന്ധപ്പെടുത്താൻ അവർക്ക് കഴിയും അവസാന വർഷത്തിലെ പ്രോജക്റ്റിലെ മികച്ച പ്രകടനത്തിലേക്ക് ഇത് നയിക്കുന്നു ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ അനുഭവം അവർക്ക് ഇതിനകം ഉണ്ടായിട്ടുണ്ട് ആദ്യ വർഷത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈനറുടെ രീതിയിൽ ചിന്തിക്കുകയും അവസാന വർഷ പ്രോജക്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്യുന്നു ഇത് അവരുടെ പ്ലെയ്സ്മെന്റ് അവസരം വർദ്ധിപ്പിക്കുകയും വ്യവസായം അവരെ കൂടുതൽ തൊഴിലവസരമുള്ളവരായി കണ്ടെത്തുകയും ചെയ്യുന്നു ചില സ്ഥാപനങ്ങൾ അടുത്തകാലത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷങ്ങളിൽ ഡിസൈൻ ചിന്തയെക്കുറിച്ചുള്ള ആശയം പരീക്ഷിക്കാൻ തുടങ്ങി അവസാന വർഷം എല്ലായ്പ്പോഴും സാധാരണമായിരുന്നു ആദ്യ വർഷം ഇത് കുറച്ച് വർഷങ്ങളായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തുടരുകയാണ് പക്ഷേ അടുത്തകാലത്ത് ചില സ്ഥാപനങ്ങൾ രണ്ടാം വർഷത്തിലും മൂന്നാം വർഷത്തിലും പോലും ഡിസൈൻ ചിന്താ കോഴ്സ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനർത്ഥം ഒരു സീക്വൻസ് ഉണ്ട് ഒന്നാം വർഷം മുതൽ അവസാന വർഷം വരെ ഡിസൈൻ ചിന്താ കോഴ്സുകളുടെ പുരോഗതി അവസാന വർഷത്തിൽ ഡിസൈനുമായി വിദ്യാർത്ഥികളുടെ ഇടപെടൽ തികച്ചും പരമ്പരാഗതമാണ് ആദ്യ വർഷത്തിൽ ഡിസൈനുമായി ഇടപഴകൽ അവതരിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാൽ ചില സ്ഥാപനങ്ങൾ രണ്ടാം വർഷത്തിലും അല്ലെങ്കിൽ മൂന്നാം വർഷത്തിലും ഒരു ഡിസൈൻ പ്രോജക്റ്റ് പരീക്ഷിക്കുന്നു ചിലർ രണ്ട് വർഷവും ഇത് ശ്രമിക്കുന്നു ചിലർ മൂന്നാം വർഷത്തിലും ചിലർ രണ്ടാം വർഷത്തിലും ശ്രമിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പ്രകാശനം നൽകുന്നതിലും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഡിസൈൻ അനുഭവം നൽകുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രയോജനങ്ങൾ വ്യക്തമാണ് എന്നാൽ ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നത് തികച്ചും വെല്ലുവിളിയാണ് സ്ഥാപനങ്ങൾക്ക് അവരുടെ സാഹചര്യപരമായ ആവശ്യകതകൾ കണക്കിലെടുത്ത് അവർക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് പരീക്ഷിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഏത് തരത്തിലുള്ള മിശ്രിതമാണ് അവർക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അവർ നിർണ്ണയിക്കേണ്ടതുണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒരു അദ്വിതീയ പരിഹാരം പോലെ ഒന്നുമില്ല അഭ്യാസം 1 ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രശ്നം വികസിപ്പിക്കുകയും അതിനായി ഒരു നിർദ്ദേശ തന്ത്രം വികസിപ്പിക്കുകയും ചെയ്യുക 2 നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പഠനം സുഗമമാക്കുന്നതിന് നിങ്ങളുടെ വകുപ്പിൽ നടപ്പിലാക്കിയ നിർദ്ദേശപരമായ സമീപനങ്ങൾ വിവരിക്കുക അഭ്യാസത്തിന്റെ ഫലങ്ങൾ story iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ മെറ്റാകോഗ്നിറ്റീവ് പഠനത്തിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ മനസിലാക്കും പഠനത്തിന്റെ മെറ്റാകോഗ്നിറ്റീവ് വശങ്ങളെ ഇൻസ്ട്രക്ടർമാർ എങ്ങനെ ശ്രദ്ധിക്കുന്നു വിദ്യാർത്ഥി പഠനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിദ്യാർത്ഥി പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വശമാണിത്